മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞങ്ങൾ കപ്പാസിറ്ററുകൾ ഉപയോഗിച്ച് സർക്യൂട്ടുകൾ വിശകലനം ചെയ്യാൻ തുടങ്ങി കപ്പാസിറ്ററുകൾ ഉപയോഗിച്ച് അതേ കാര്യം ഇൻഡക്ടറുകളിലും പ്രയോഗിക്കും അതിന്റെ ഫലം ഒരു ഡിഫറൻഷ്യൽ ഇക്വഷൻ പരിഹരിക്കേണ്ടതുണ്ട് നമുക്ക് ഒരൊറ്റ കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വഷനിൽ അവസാനിക്കും അതിനുള്ള പരിഹാരം ചില എക്സ്പൊനാൻഷ്യൽ പ്രതികരണമായി മാറുന്നു അതാണ് അതിന്റെ ഹോമോജിനെസ് ഭാഗത്തിനുള്ള പരിഹാരം നിങ്ങൾക്ക് ഒരു കോൺസ്റ്റൻറ് ഇൻപുട്ട് ഉണ്ടെങ്കിൽ സ്ഥിരമായ അവസ്ഥയുടെ പ്രതികരണവും കോൺസ്റ്റൻറ് ആയിരിക്കും പൂർണ്ണമായ പരിഹാരം സ്ഥിരമായ അവസ്ഥയുടെയും സ്വാഭാവിക പ്രതികരണത്തിന്റെയും ആകെത്തുകയാണ് സ്വാഭാവിക എക്സ്പോണൻഷ്യൽ പ്രതികരണം കോൺസ്റ്റൻറ് ഇൻപുട്ടിനുള്ള സ്ഥിരമായ പ്രതികരണം ഒരു കോൺസ്റ്റൻറ് ആണ് അതിനാൽ ഇവ സംയോജിപ്പിച്ച് നിങ്ങൾക്ക് മൊത്തത്തിലുള്ള പരിഹാരം കണ്ടെത്താനാകും അതിനാൽ മൊത്തം പ്രതികരണം സ്റ്റെഡി നിലയുടെയും സ്വാഭാവിക പ്രതികരണങ്ങളുടെയും ആകെത്തുകയാണ് കൂടാതെ സ്വാഭാവിക പ്രതികരണം ചില വ്യക്തമാക്കാത്ത സ്കെയിലിംഗ് ഘടകങ്ങളുമായി വരുന്നു കാരണം ആ പ്രതികരണം ഏതെങ്കിലും സ്കെയിലിംഗ് ഘടകവുമായുള്ള ഹോമോജിനെസ് ഇക്വഷൻ തൃപ്തിപ്പെടുത്തും അതിനാൽ സ്കെയിലിംഗ് ഘടകത്തിന്റെ പ്രത്യേക വാല്യൂ പ്രാരംഭ വ്യവസ്ഥകളിൽ നിന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ കപ്പാസിറ്ററുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഉണ്ട് കറന്റുകൾ പരിമിതമാണെങ്കിൽ അത് വോൾട്ടേജ് തൽക്ഷണം മാറാൻ കഴിയില്ല അതിനാൽ പ്രാരംഭ വ്യവസ്ഥകൾ കണ്ടെത്തുന്നത് ഇങ്ങനെയാണ് ഉദാഹരണത്തിന് ഞങ്ങൾ ഈ സർക്യൂട്ട് എടുത്തു ഇവിടെ R C എന്നിവയുടെ ഈ കോമ്പിനേഷനിൽ ഒരു സ്ഥിരമായ Vs പ്രയോഗിക്കുന്നു ഈ Vc യ്ക്ക് 0 ന് തുല്യമായ ചില പ്രാരംഭ മൂല്യമുണ്ട് ഇവിടെ ഇത് സ്ഥിരമായ അവസ്ഥയോ നിർബന്ധിത പ്രതികരണമോ അല്ലെങ്കിൽ പ്രത്യേക ഇന്റഗ്രൽ ആണ് ഈ ഭാഗം ട്രാൻസിയെന്റ പ്രതികരണമാണ് വ്യക്തമായും അത് ഒടുവിൽ പുറത്തുപോകും അല്ലെങ്കിൽ സ്വാഭാവിക പ്രതികരണം അതായത് ഇത് സർക്യൂട്ടിന്റെ ചില പ്രോപ്പർട്ടി ആണ് പ്രയോഗിച്ച ഇൻപുട്ടല്ല കാരണം നിങ്ങൾക്ക് R C എന്നിവയുടെ പ്രത്യേക മൂല്യമുണ്ട് ആർഗ്യുമെന്റിൽ 1RC ഉള്ള ഒരു എക്സ്പോണൻഷ്യൽ ഉണ്ട് അതാണ് സ്വാഭാവിക പ്രതികരണം നൽകുന്നത് അല്ലെങ്കിൽ ഹോമോജിനെസ് സമവാക്യത്തിനുള്ള പരിഹാരമായി നിങ്ങൾക്ക് ഇതിനെ കണക്കാക്കാം അതിനെ ഡിവൈഡ് ചെയ്യുന്നതിനുള്ള മറ്റൊരു മാർഗ്ഗം എല്ലാ നിബന്ധനകളും Vs ഉപയോഗിച്ചും നിബന്ധനകൾ ഇനിഷ്യൽ കണ്ടിഷൻസ് ആയും ഗ്രൂപ്പുചെയ്യുക എന്നതാണ് ഇതിനെ സീറോ സ്റ്റേറ്റ് പ്രതികരണം എന്ന് വിളിക്കുന്നു ഈ സാഹചര്യത്തിൽ കപ്പാസിറ്ററിലെ വോൾട്ടേജിന് മുഴുവൻ സ്റ്റേറ്റ് ബാധകമാണ് കപ്പാസിറ്ററിലെ വോൾട്ടേജിന് ഒരു നിശ്ചിത മൂല്യമുണ്ടാകാം അതാണ് സ്റ്റാറ്റസ് ഇതാണ് പൂജ്യം ഇൻപുട്ട് പ്രതികരണം അതിനാൽ നിങ്ങൾക്ക് ഈ രണ്ട് പദപ്രയോഗങ്ങളെയും കുറിച്ച് ചിന്തിക്കാം ഇവിടെ നിങ്ങൾക്ക് സ്ഥിരതയുള്ള പരിഹാരമുണ്ട് ഇത് ഇനിഷ്യലും സ്ഥിരവുമായ അവസ്ഥ തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിലേക്ക് നയിക്കുന്ന സോഴ്സ് വോൾട്ടേജ് ഫൈനൽ വാല്യൂ ആണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം അതായത് ഈ 1 മൈനസ് എക്സ്പോണൻഷ്യലും പ്രാരംഭ അവസ്ഥയും മാറുന്നു അതിനാൽ സൊല്യൂഷന്റെ ഈ ഭാഗങ്ങളുടെ വ്യാഖ്യാനം അതാണ് ഈ പ്രത്യേക സാഹചര്യത്തിൽ ട്രാൻസിയെന്റ പ്രതികരണമോ സ്വാഭാവിക പ്രതികരണമോ എല്ലായ്പ്പോഴും ഉയർന്നുവരുന്നത് കണ്ടു അതിനുള്ളിലെ ഒരു നെഗറ്റീവ് ആർഗ്യുമെന്റുള്ള എക്സ്പോണൻഷ്യൽ കാരണം t ഇൻഫിനിറ്റിലേക് പ്രവണത കാണിക്കുമ്പോൾ അത് എല്ലായ്പ്പോഴും 0 ലേക്ക് പോകുന്നു ഇപ്പോൾ ഇത് ടേബിൾ സർക്യൂട്ടുകൾ എന്നറിയപ്പെടുന്നവയുടെ പ്രോപ്പർട്ടി ആണ് ഈ കോഴ്സിൽ നമ്മൾ പരിഗണിക്കുന്ന എല്ലാ സർക്യൂട്ടും സ്ഥിരതയുള്ള സർക്യൂട്ടായിരിക്കും അതിനാൽ ഒടുവിൽ സ്റ്റെഡി സ്റ്റേറ്റ് പ്രതികരണത്തിന് തുല്യമായ ഒരു പ്രതികരണം നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് ഇതിനർത്ഥം തീർച്ചയായും ഇവയെല്ലാം കോൺസ്റ്റന്റ് ഇൻപുട്ടുകൾക്കൊപ്പം ബാധകമാണ് നിങ്ങൾക്ക് Vs ഉണ്ടെങ്കിൽ ഈ ഫോർമുലയിലേക്ക് Vs സബ്സ്റ്റിട്യൂട് ചെയ്യാൻ കഴിയില്ല ഇതുപോലൊരു കാര്യത്തിന് ഇത് ഒരു മാതൃകയാകാം അവിടെ Vs ചില മൂല്യങ്ങളിൽ നിന്നുള്ള മാറ്റങ്ങൾ പറയാം 0 വോൾട്ട് മുതൽ 5 വോൾട്ട് വരെ പറയാം അതിനാൽ അടിസ്ഥാനപരമായി Vs ൽ ഒരു ഘട്ടം മാറ്റമുണ്ട് അതും ഈ വിഭാഗത്തിൽ പെടുന്നു അതിനാൽ Vs എന്നത് a ആണെന്ന് പറയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഇൻപുട്ട് ആകുമ്പോൾ അത് കോൺസ്റ്റന്റ് ആയിരിക്കും അതിനാൽ സ്റ്റെപ്പിന് തൊട്ടുമുമ്പ് ഈ കപ്പാസിറ്ററുകളുടെ വോൾട്ടേജിന്റെ മൂല്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ സാഹചര്യത്തിൽ കപ്പാസിറ്ററുകളിലൂടെ ഇൻഫിനിറ്റ് കറന്റ് ഒഴുകാൻ കഴിയില്ല അതിനാൽ ഈ Vc രൂപീകരിക്കുന്ന സ്റ്റെപ്പിന് തൊട്ടുപിന്നാലെ ആ മൂല്യം സംരക്ഷിക്കപ്പെടും 0 ന് തുല്യമായ t നിർവചിക്കുകയാണെങ്കിൽ അത് Vc യുടെ ഈ മൂല്യവും 5 വോൾട്ട് ആയ ഈ മൂല്യം V s ആയിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഇത് കണ്ടെത്തിയതിന് ശേഷം പറയാം ഈ Vs 5 വോൾട്ടിൽ നിന്ന് മൈനസ് 3 വോൾട്ടിലേക്ക് മാറുന്നു അപ്പോൾ നിങ്ങൾ എങ്ങനെ പരിഹാരം കണ്ടെത്തും അതിനാൽ ഈ സമവാക്യം എഴുതിയ രീതി വീണ്ടും ഈ സന്ദർഭത്തിൽ t എന്നത് 0 ന് തുല്യമായി വായിക്കേണ്ടതുണ്ട് സ്റ്റെപ്പിന് തൊട്ടുമുമ്പ് V c യുടെ ചില മൂല്യങ്ങളുണ്ട് നിങ്ങൾ Vc യ്ക്കും ഈ മൈനസ് 3 വോൾട്ടുകളുടെ അവസാന മൂല്യത്തിനും നിങ്ങൾ Vs ന് ഉപയോഗിക്കുന്നത് ഇതാണ് അതിനാൽ ഞാൻ കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോൾ അത് തികച്ചും കോൺസ്റ്റന്റ് ആയിരിക്കണമെന്നില്ലഅത് പീസ്വൈസ് കോൺസ്റ്റന്റ് ആയിരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് കാര്യങ്ങൾ പീസ്വൈസ് ആയി പ്രവർത്തിക്കാൻ കഴിയും അതിനാൽ ഇത് വ്യക്തമാണോ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമാണ് കപ്പാസിറ്റർ വോൾട്ടേജ് തുടക്കത്തിൽ 0 ആയിരുന്നുവെന്ന് നമുക്ക് അനുമാനിക്കാം തുടർന്ന് അത് ഉയരാൻ തുടങ്ങും ഇപ്പോൾ 5 വോൾട്ട് വരെ എത്തില്ല എന്നാൽ കഴിഞ്ഞുപോയ സമയത്തെ ആശ്രയിച്ച് അത് എന്താണെന്ന് നിങ്ങൾക്ക് കണക്കാക്കാം തുടർന്ന് അത് മൈനസ് 3 വോൾട്ടിലേക്ക് നീങ്ങാൻ തുടങ്ങും വീണ്ടും ഒരു ഘട്ടം മാറ്റമുണ്ടെങ്കിൽ അത് മറ്റ് ചില വോൾട്ടുകളിൽ മാറും അതിനാൽ അനിയന്ത്രിതമായ പീസ്വൈസ് ഇൻപുട്ടിനായി ഇതുപോലുള്ള ഒരു സർക്യൂട്ടിന്റെ പ്രതികരണം നിങ്ങൾക്ക് കണ്ടെത്താനാകും ഇപ്പോൾ ഇത്തരത്തിലുള്ള പരിഹാരം ഒരേ തരത്തിലുള്ള സർക്യൂട്ട് ആയിരിക്കുമ്പോൾ ബാധകമാണ് എന്നാൽ വളരെ കുറച്ച് വ്യത്യസ്തമായി കാണപ്പെടുന്നു അതിനാൽ ഇത് ഇപ്പോൾ ഞാൻ കോൺസ്റ്റന്റ് DC ഉറവിടമാണെന്നും നിങ്ങൾക്ക് R C ഉണ്ടെന്നും പറയട്ടെ അവിടെ സ്വിച്ച് ചില സമയങ്ങളിൽ തുറക്കുകയോ അടച്ചിരിക്കുകയോ ചെയ്യുന്നു അതിനാൽ t 0 ന് തുല്യമാകുന്നതിന് മുമ്പ് കപ്പാസിറ്റർ സ്പെയ്സിലെ വോൾട്ടേജുകൾ എന്തായാലും കപ്പാസിറ്ററിലൂടെ കറന്റ് ഒഴുകാൻ കഴിയില്ല അത് ഒരു ഓപ്പൺ ലൂപ്പാണ് t 0 ന് തുല്യമാകുമ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്യപ്പെടുകയും നിങ്ങൾക്ക് ഈ Vs R C സീരീസും ലഭിക്കും മുമ്പ് ഉണ്ടായിരുന്ന അതേ സർക്യൂട്ടും പരിഹാരവും സമാനമായിരിക്കും അതിനാൽ നിങ്ങൾ സ്വിച്ച് അടയ്ക്കുന്നതിന് മുമ്പ് കപ്പാസിറ്ററിൽ ഉണ്ടായിരുന്നത് തന്നെയായിരിക്കും Vc യുടെ മൂല്യം നിങ്ങൾ പ്രയോഗിക്കുന്ന മൂല്യമാണ് Vs അതിനാൽ ഇത് കൃത്യമായി ബാധകമാണ് ഇതിന് ധാരാളം വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം ഇത് ഇതുപോലെ അടയ്ക്കുന്നതിന് പകരം തുറക്കുന്ന മറ്റെന്തെങ്കിലും സ്വിച്ച് ഉണ്ടായിരിക്കാം തുടർന്ന് മറ്റെന്തെങ്കിലും അടയ്ക്കാം അതിനാൽ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു കപ്പാസിറ്റർ മാത്രമേ ഉള്ളൂ എന്നതിനാൽ ഇത്തരത്തിലുള്ള ഏത് പ്രശ്നവും പരിഹരിക്കാൻ കഴിയണം കാരണം ആദ്യ ഓർഡറിന്റെ ഡിഫറൻഷ്യൽ സമവാക്യങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് ഇതുവരെ പഠിച്ചു ഇത് ഫസ്റ്റ് ഓർഡർ സർക്യൂട്ട് എന്നറിയപ്പെടുന്നു ഫസ്റ്റ് ഓർഡർ സർക്യൂട്ട് മറ്റൊന്നുമല്ല ആദ്യ ഓർഡറിന്റെ ഡിഫറൻഷ്യൽ സമവാക്യം പിന്തുടരുന്ന ഒന്ന് ആണ്